എന്താണ് intellectual property ബൌദ്ധികസ്വത്ത് ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടി എന്നത് ഒരു ഗവേഷണത്തിൽ നിന്ന് ഉളവാകുന്ന മൂലമായ മൌലികത്വം ഉള്ള അഥവാ ആദ്യത്തേതായ ആശയ സംഹിതയാണ് സാധാരണയായി വ്യാവസായിക പ്രാധാന്യമുള്ള വിവരങ്ങളാണ് അത് ഉൾക്കൊള്ളുന്നത് മറ്റൊരു അർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സൃഷ്ടിപരമായ ക്രിയാത്മകമായ അധ്വാനത്തിൽ നിന്ന് ഉളവാകുന്ന ഫലത്തെ ആണ് അഥവാ സ്വത്തിനെ ആണ് ആണ് Intellectual property എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പരാമർശിക്കുമ്പോൾ പ്രത്യേകമായി നിർവചിക്കാൻ പരിശ്രമിക്കുന്നത് മനുഷ്യൻറെ സാധാരണ സ്വത്തിൽ നിന്നും വ്യത്യസ്തമായ Intellectual property ആണ് ഉദാഹരണത്തിന് ഭൂമി ലാപ്ടോപ്പ് പേന തുടങ്ങിയവ യഥാർത്ഥ ലോകത്തിലുള്ള സ്വത്തിന് ഉദാഹരണങ്ങൾ ആണ് അവയെ നമുക്ക് തൊട്ടു നോക്കി മനസ്സിലാക്കാം അവ ഇന്ദ്രിയ ഗോചരമായവയാണ് എന്ന് വെച്ചാൽ നമുക്ക് അവയെ കണ്ടും തൊട്ടും മണത്തുനോക്കിയും രുചിച്ചറിഞ്ഞും മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കും ഈ ഗുണങ്ങൾ ഇത്തരം സ്വത്തിൻറെ അതിരുകൾ ആണ് അതുകൊണ്ട് തന്നെ ഈ സ്വത്തുക്കളുടെ അതിർത്തി നിർണയിക്കുന്നതിൽ തർക്കങ്ങൾ ഉണ്ടാകുക അത്ര സ്വാഭാവികം അല്ല ഒരു തുണ്ട് ഭൂമി അതിൻറെ നാലതിരുകളാൽ നിർവചിക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നു ഒരു പേന പ്രത്യേക സമയത്തിലും സ്ഥലത്തും നിലനിൽക്കുന്നു അതുകൊണ്ടുതന്നെ ഇവയുടെ അതിരുകൾ നിർണയിക്കുന്നതിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നില്ല എന്നാൽ Intellectual property യുടെ നാലതിരുകൾ അഥവാ സ്വത്തവകാശം നിർണയിക്കുന്നതിന് നമുക്ക് മറ്റു പല ഘടകങ്ങൾ കൂടെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് ഒരു മനുഷ്യൻറെ ക്രിയാത്മകവും സൃഷ്ടിപരവുമായ അധ്വാനത്തിൽ നിന്ന് ഉളവാകുന്നതിനെയാണ് ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വിവിധ രൂപത്തിലും തരത്തിലും ഉള്ള intellectual property ഉണ്ട് ഉദാഹരണത്തിന് ഒരു കണ്ടുപിടുത്തത്തെ എടുക്കൂ ഒരു പുതിയ കണ്ടുപിടിത്തം ഒരു ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടി ആണ് പേറ്റൻറ് വഴി അതിൻറെ ബൌദ്ധികസ്വത്തവകാശം സംരക്ഷിക്കപ്പെടുന്നു ഒരു സാഹിത്യ രചനയായ പുസ്തകം അല്ലെങ്കിൽ അക്ഷരങ്ങളിലും വാക്കുകളിലും പ്രകാശിതമായ മറ്റേതെങ്കിലും ഒരു സൃഷ്ടി കവിതയോ കഥയോ നാടകമോ പ്രഭാഷണമോ ലേഖനമോ എന്തുമായിക്കൊള്ളട്ടെ അത് ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടി ആണ് കോപ്പിറൈറ്റ് എന്ന ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് വഴിയാണ് ഇവ സംരക്ഷിക്കപ്പെടുന്നത് ഇങ്ങനെ വരുമ്പോൾ മനുഷ്യരുടെ ക്രിയാത്മകമായ അധ്വാനത്തിലൂടെ ഉളവാകുന്ന വിവിധങ്ങളും വ്യത്യസ്തങ്ങളും ആയ സൃഷ്ടികൾക്ക് ഉടമസ്ഥാവകാശം നിർണയിച്ച് നൽകുന്നത് തികച്ചും വ്യത്യസ്തമായ ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് വഴിയാണ് Intellectual property എന്ന ആശയം കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നതിന് ഈ വാക്കുകൾ എന്ത് പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടി യും ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റും പരസ്പരം ഇടകലർന്ന് വരാറുണ്ട് അതിൽ തെറ്റില്ല കാരണം ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടി യെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും അതിന് അനുബന്ധമായ ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെയും പരാമർശിക്കാതെ തരമില്ല എന്നാലേ അത് പൂർണമാകൂ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടി ഉൾക്കൊള്ളുന്ന വിവിധ ഘടകങ്ങളെ ഓരോന്നായി എടുത്ത് പ്രത്യേകം പ്രത്യേകം വിശദീകരിക്കുന്നതാണ് നമുക്കിപ്പോൾ അതിലേക്ക് പ്രവേശിക്കാം